എഞ്ചിനീയറിംഗ്മാത്തമാറ്റിക്സ്രണ്ടിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പ്രഭാഷണ നമ്പർ 29 ആണ്നമ്മൾ പോളിനോമിയൽ polynomialഇന്റർപോളേഷനെക്കുറിച്ചുള്ള ചർച്ച തുടരും ഈ പ്രഭാഷണത്തിൽ നമ്മൾ രണ്ട് പോളിനോമിയൽ ഇന്റർപോളേറ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സംസാരിക്കും ഒന്ന് ന്യൂട്ടന്റെ ഡിവിഡഡ് വ്യത്യാസമാണ് ഇത് നമ്മൾ ന്യൂട്ടന്റെ ഫോർവേഡ്ബാക്ക്വേഡ്ഇന്റർപോളേഷൻ ഫോർമുലformulaകൾ ചെയ്തതിന് സമാനമാണ് മറ്റൊന്ന് നമ്മൾ സംസാരിക്കുന്നത് ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുലയെക്കുറിച്ചാണ് ഇവ രണ്ടും അസമമായ ഇടവേളകളുള്ളതാണ് അതിനാൽ ഗ്രിഡ് പോയിന്റുകളോ നോഡൽ പോയിന്റുകളോ ഈ കേസിൽ തുല്യ ദൂരമല്ല സൂത്രവാക്യം ഇതുപോലെ കാണപ്പെടുന്ന ന്യൂട്ടന്റെ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ ഇതുവരെ മുൻ പ്രഭാഷണങ്ങളിൽ ചർച്ചചെയ്തു ഇവിടെ ഓരോ പദത്തിലും ഈ h എവിടെയെങ്കിലും ഉണ്ട് ഇത് നോഡൽ പോയിന്റുകൾ x0 x1 അല്ലെങ്കിൽ x1 x2തമ്മിലുള്ള ദൂരം ആയിരുന്നുഅല്ലെങ്കിൽഅത് അനുമാനിക്കപ്പെട്ട സമദൂരമാണ് അതുപോലെ ന്യൂട്ടന്റെ ബാക്വാർഡ് സൂത്രവാക്യത്തിനും ഈ നോഡൽ പോയിന്റുകൾ തുല്യ അകലമാണെന്ന്നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ രണ്ട് സൂത്രവാക്യങ്ങളിലും സമദൂര നോഡൽ പോയിന്റുകൾ എടുത്താണ് ഉരുത്തിരിഞ്ഞത് എന്നതും ഇവിടെ ഒരു കുറിപ്പാണ് ഇപ്പോൾ നമുക്ക് തുല്യദൂര നോഡൽ പോയിന്റുകളും ഉണ്ടായിരിക്കാം എന്ന അർത്ഥത്തിൽ കൂടുതൽ പൊതുവായ രണ്ട് ഫോർമുലേഷനുകളെക്കുറിച്ച് സംസാരിക്കും ആദ്യത്തേത് ന്യൂട്ടന്റെ ഡിവിഡഡ് ഡിഫറൻസ് ഫോർമുലയാണ് അത് നമ്മൾ ഇതിനകം ചെയ്തതിന് സമാനമാണ് ന്യൂട്ടന്റെ ഫോർവേഡ്അല്ലെങ്കിൽ ബാക്ക്വേർഡ്ഡിഫറൻസ് ഫോർമുലയുടെ ഡെറിവേഷനായി നമ്മൾ ആരംഭിച്ചതിലേക്ക് മടങ്ങാം നമുക്ക് രണ്ട് പോയിന്റുകളും അവയുടെ അനുബന്ധ മൂല്യങ്ങളും നൽകിയിരിക്കുന്നു അടിസ്ഥാനപരമായി രണ്ട് പോയിന്റുകൾ നൽകിയിരിക്കുന്നു ഈ രണ്ട് പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു നേർരേഖയ്ക്ക് അനുയോജ്യമാകുമെന്ന് നമുക്കറിയാം അതിനാൽ ഈ ഗുണകങ്ങളുടെ മൂല്യനിർണ്ണയത്തിന്റെ ലാളിത്യം കണക്കിലെടുത്ത് ഈ പ്രത്യേക ഫോർമാറ്റ് എടുത്തിട്ടുണ്ട് ഉടനെ നമ്മൾ xx0 മാറ്റിസ്ഥാപിക്കുമ്പോൾ ഈ പോളിനോമിയൽ fx0b0മൂല്യം നൽകണം ഈ പദം 0 ആയിരിക്കും അപ്പോൾ b0f നമുക്ക് മറ്റൊരു പോയിന്റി x1ലേക്ക് പോകാം xx1പകരം വയ്ക്കുമ്പോൾ നമുക്ക് fx1b0b1x1 x0 ലഭിക്കും മുമ്പ് ചെയ്തതുപോലെ സാധാരണ പോലെ b1നേടാം ഒപ്പംb1fx1 fx1 x0 മുമ്പേ നമ്മൾ b1 എഴുതിയത് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ അവർ തുല്യ ദൂരത്തിലാണെന്നും x1 x0h ആണെന്നും അനുമാനിക്കുന്നു ഇപ്പോൾ ഇവിടെ fx1 fx1 x0 പദപ്രയോഗം കൂടുതൽ സാമാന്യമാക്കുന്നതിന് നമ്മൾ ഇതിനെfx1x0 ചിഹ്നത്തിൽ ഡിവിഡഡ് ഡിഫറൻസ് ഫോർമുല എന്ന് വിളിക്കുന്നു അതിനാൽ x1 x0 ഇവയും നോഡൽ പോയിന്റുകളിലേക്കും വിഭജിച്ച വ്യത്യാസമാണിത് ഈ സ്കോയാർ ബ്രാക്കറ്റ് ചിഹ്നം ഉപയോഗിച്ച് fx1x0അനുപാതം നിർവചിക്കുന്നു അതിനാൽ ഇതിനെയാണ് നമ്മൾ വിഭജിച്ച വ്യത്യാസം എന്ന് വിളിക്കുന്നത് fx1x0 എന്നത് b1 അടിസ്ഥാനത്തിൽ ഉള്ളതിനാൽ നമുക്ക് പോളിനോമിയൽP1xfx0fx1x0 ആയി ലഭിച്ചു ഈ വിഭജിത വ്യത്യാസംb1 നെ മാറ്റിസ്ഥാപിച്ചു അതുപോലെ fx0b0 അതിനാൽ വിഭജിച്ച വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിഗ്രി 1 ന്റെ ഈ ബഹുപദം ലഭിച്ചു അതുപോലെനമുക്ക്ക്വാഡ്രാറ്റിക്പോളിനോമിയിലേക്കും തുടരാംഈ സാഹചര്യത്തിൽ നമുക്ക് മൂന്ന് പോയിന്റുകൾ ആവശ്യമാണ് അതിനാൽ x0 x1 കൂടാതെ x2 ന്ടെ അനുബന്ധ മൂല്യങ്ങൾ f f കൂടാതെfആണ് ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് ഡിഗ്രി 2 ന്റെ പോളിനോമിയൽ യോജിപ്പിക്കാം നമ്മൾ ഈ P2xb0b1x x0b2x x0x x1ഘടന എടുക്കും അജ്ഞാതമായ ഈ b0 b1 b2ഗുണകങ്ങളുടെ മൂല്യനിർണ്ണയത്തിനായി വീണ്ടും പോകും അതായത്b0 അതിനാൽ b0 പകരം വയ്ക്കുമ്പോൾ നമുക്ക് b0 b1 ഉടനടി ലഭിക്കും ഇതിനകം വിലയിരുത്തിയ അതേ മൂല്യം തന്നെ ആയിരിക്കും അതിനാൽ b1fx1x0 xx2 പകരം വയ്ക്കുമ്പോൾ നമുക്കു b2ലഭിക്കും b2fx2 fx2 x1 fx1 fx1 x0x2 x0 നമ്മൾ നേരത്തെ രണ്ട് പോയിന്റുകൾക്കായി നിർവചിച്ചിട്ടുള്ള വിഭജിച്ച വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പദപ്രയോഗങ്ങളും ഇവിടെ വീണ്ടും എഴുതാം അതായത്fx2x1ആദ്യത്തേതും രണ്ടാമത്തേത് വിഭജിച്ച വ്യത്യാസവുമാണ് ഇത് fx1x0കൊണ്ട് സൂചിപ്പിക്കുകയും x2 x0 കൊണ്ട് വിഭജിക്കുകയും ചെയ്യുന്നു ഈ ഉയർന്ന ഓർഡറിന്റെ ഈ വിഭജിത വ്യത്യാസം ഇവിടെയുണ്ട് അത് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും കാരണം ഇത് വീണ്ടും നമ്മൾ ആദ്യം കണക്കാക്കിയ ആ വിഭജിത വ്യത്യാസത്തിന്റെ വ്യത്യാസമാണ് തുടർന്ന് നമുക്കുള്ള ഈ നോഡൽ പോയിന്റുകൾ തമ്മിലുള്ള പരമാവധി വ്യത്യാസം അതിനാൽx2 ഏറ്റവും ഉയർന്ന മൂല്യവും x0ഏറ്റവും കുറഞ്ഞ മൂല്യവുമാണ് അതിനാൽ ആ വ്യത്യാസം ഡിനോമിനേറ്ററിൽ വരുന്നു ഈ മൂന്ന് പോയിന്റുകൾ ഉപയോഗിച്ച് വീണ്ടും ഈ വിഭജിത വ്യത്യാസമായി ഈ അനുപാതം നിർവചിക്കുന്നു അതായത്fx2x1x0 അതിനാൽ ഈ b1 വിഭജിച്ച വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഡിഗ്രി പോളിനോമിയൽആയP2xfx0fx1x0x x0fx2x1x0 എഴുതാം ഇപ്പോൾ നമുക്ക് ഇത് മൂന്നാം ഓർഡർ പോളിനോമിയലിനോ നാലാമത്തെ ഓർഡർ പോളിനോമിയലിനോ വേണ്ടി തുടരാം പൊതുവായി പറഞ്ഞാൽ നൽകിയിരിക്കുന്ന പോയിന്റുകൾക്ക് n ആം ഡിഗ്രി പോളിനോമിയൽ കാണുക നമ്മൾക്ക് Pnxfx0x x0fx1x0x x0x x1fx2x1x0x x0x x1x xn 1fxnxn 1x0അത്തരമൊരു ഫോർമുലേഷൻ ഉണ്ട് ഇത് ന്യൂട്ടന്റെ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയേക്കാൾ പൊതുവായ ഫോർമുലയാണ് കൂടാതെ നമ്മുടെ ഡാറ്റയിൽ ഇക്വിഡിസ്റ്റന്റ് നോഡൽ പോയിന്റുകൾ നൽകുമ്പോൾ ഇത് ഉപയോഗിക്കാം വിഭജിച്ച വ്യത്യാസത്തേക്കാൾ ഫോർമുല വളരെ ലളിതമായി കാണപ്പെടുന്നു കാരണം h വിഭജിത വ്യത്യാസത്തിൽ ഇതിനകം തന്നെ നോഡൽ പോയിന്റുകൾ തമ്മിലുള്ള ദൂരം മറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ ലളിതമാക്കിയ ഫോർമുലയുണ്ട് രസകരമായ കാര്യം എന്തെന്നാൽ ഈ വിഭജിച്ച വ്യത്യാസങ്ങൾ നമുക്ക് ലഭിച്ചതിനാൽ പട്ടികയുടെ സഹായത്തോടെ നമുക്ക് നേടാനാകും എന്നതാണ് പട്ടികയിൽ നിന്നും പകരം ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള പോളിനോമിയൽ ലഭിക്കും ശരി അതിനാൽ ഈ ഫോർമുലയെ ന്യൂട്ടന്റെ ഡിവിഡഡ് ഡിഫറെൻസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് വിളിക്കുന്നു ഇനി ഈ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊന്നിലേക്ക് വരാം അതാണ് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻഫോർമുല ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ലീനിയർ പോളിനോമിയൽഉപയോഗിച്ച് ചെയ്യുന്ന കാര്യത്തിലേക്ക് മടങ്ങും നമ്മൾ ഇപ്പോൾ x0fx0x1fx1 പോയിന്റുകൾ എടുത്ത്ഈ വിഭജിത ഡിഫറെൻസ് ഫോർമുല കണ്ടു അതിനാൽ fx0fx1x0 ബഹുപദത്തിന്റെ ഡിഗ്രി1 ആയിരുന്നു നമ്മൾ ഇവിടെ ഈ ഡിവൈഡഡ് ഡിഫറെൻസ് പകരം വയ്ക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽfx1 fx0x1 x0 ആയിരുന്നു അതിനാൽ ഡിഗ്രി 1 ന്റെ ഈ പോളിനോമിയൽ ഈ രണ്ട് പോയിന്റുകളിലൂടെ കടന്നുപോകുന്നു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് വീണ്ടും എഴുതുകയാണ് അത് ലാഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ഫോർമാറ്റായിരിക്കും ശരി നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നു ഡിഗ്രി 1 ന്റെ ഈ പോളിനോമിയൽ നമ്മൾ ഈ ഫോമിൽ മാറ്റിയെഴുതിയാൽ ഇവിടെ നമുക്ക് കുറച്ച് പോളിനോമിയൽ ഉണ്ട് ഇവിടെ ഫംഗ്ഷന്റെ മൂല്യം ഡിഗ്രി 1 ന്റെ f പോളിനോമിയലും ആണ് ഇവിടെയുള്ള ഈ പോളിനോമിയലുകൾ ഉദാഹരണത്തിന് ഈ ആദ്യത്തേ L0നെ ലാഗ്രാഞ്ച്പോളിനോമിയൽ എന്നും വിളിക്കുന്നു L1 ലാഗ്രാഞ്ച്പോളിനോമിയൽആണ് അതിനാൽ ഈ 0 അർത്ഥമാക്കുന്നത് നമുക്കുണ്ട് ഇവിടെL1 ഇതിനർത്ഥം നമുക്ക് ഇവിടെ വ്യവകലനം ഉണ്ട് എന്നാണ് അതിനാൽ അടുത്ത സ്ലൈഡിൽ ഇത് സാമാന്യവൽക്കരിക്കും തുടർന്ന് ഇത് കൂടുതൽ വ്യക്തമാകും ഇവയെ ഡിഗ്രി 1 ന്റെ പോളിനോമിയലുകൾ എന്ന് വിളിക്കുന്നു കാരണം ഇവ ഡിഗ്രി 1 പോളിനോമിയലാണ് നമുക്ക് അവിടെx മാത്രമേയുള്ളൂ ഈ ഫോർമാറ്റ് ഉള്ളതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു തുകയുടെ രൂപത്തിൽ എഴുതാൻ കഴിയുന്ന ഭംഗി എന്താണ്P1xi01Lixf

അതിനാൽ ഡിഗ്രി 1 ന്റെ ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകൾ ഡിഗ്രി 2 ഡിഗ്രി 3 മുതലായവയുടെ ലാഗ്രാഞ്ച് പോളിനോമിയലുകൾ നമുക്ക് നിർവചിക്കാം നൽകിയിരിക്കുന്ന പോയിന്റുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഈ ഫോർമുലയെ സാമാന്യവൽക്കരിക്കാൻ കഴിയും ഈ സാഹചര്യത്തിൽ നമുക്ക് അവിടെ രണ്ട് പോയിന്റുകൾ മാത്രമേയുള്ളൂ ഡിഗ്രി1ന്റ ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകൾ ഇവിടെ ദൃശ്യമാകുന്നു എന്നാൽ നമുക്ക് മൂന്ന് പോയിന്റുകൾ ഉള്ളപ്പോൾ ആ പോളിനോമിയലുകൾ ഡിഗ്രി 2 പോളിനോമിയലിൽ ആയിരിക്കും വീണ്ടും ഫോർമുലയുടെ അതേ ഘടന തുടരും ലീനിയർ കേസിനായി P1 ഈ സമ്മേഷൻ ഫോർമാറ്റിൽ എഴുതാമെന്നും പിന്നീട് L0യും L1ഉള്ളതും ഈ Li ഫോമിൽ എഴുതിയിരിക്കുന്നതും കണ്ടു തീർച്ചയായും നമുക്ക് ഇത് കൂടുതൽ ഒതുക്കമുള്ള രൂപത്തിലോ കൂടുതൽ പൊതുവായ രൂപത്തിലോ എഴുതാം അത് ഇവിടെ ഈ പ്രോഡക്റ്റ്ല്ലാതെ മറ്റൊന്നുമല്ല കാരണം രണ്ടാമത്തെ ഓർഡർ ലഭിക്കുമ്പോൾ ഘടന എളുപ്പത്തിൽ കാണാൻ കഴിയും അതിനാൽ കുറച്ച് സമയം ലാഭിക്കാൻ നമ്മൾ ഇവിടെ ഒഴിവാക്കുന്നു ഇവിടെ നമ്മൾക്ക് പ്രോഡക്റ്റ് മാത്രമേയുള്ളൂ അതിനാൽ ഈ പദം ഇവിടെയുണ്ട് തുടർന്ന് ഈ ഉൽപ്പന്നം ചെയ്യുന്നത് തുടരുക എന്നാൽ ഈ സാഹചര്യത്തിൽ ഇത് 0 മുതൽ 1 വരെ പോകുന്നു തുടർന്ന് നമുക്ക് j≠i ഉണ്ട് അതിനാൽ നമ്മൾ L0 കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ j എന്നത് 0 ആയിരിക്കില്ല j വെറും 1 ആയിരിക്കും നമുക്കു ഇതും ഉണ്ട് ഇത് x x1 മാത്രമാണ് അവിടെ ഒരു പ്രോഡക്റ്റ് ഇല്ല അതുപോലെ L1 കൂടെ നമുക്ക് ഈ പദപ്രയോഗം ലഭിക്കും ഇത് കൂടുതൽ പൊതുവായതാണ് എന്നാൽ നമ്മൾ രണ്ടാമത്തെ ഓർഡർ പോളിനോമിയലിനെക്കുറിച്ചോ മൂന്നാം ഓർഡർ പോളിനോമിയലിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് വരും രണ്ടാമത്തെ ഓർഡർ അല്ലെങ്കിൽ മൂന്നാം ഓർഡർ പോളിനോമിയലുകൾ നിർമ്മിക്കുന്നതിന് അത്തരം പദങ്ങൾ പ്രോഡക്റ്റ്ൽ വരും ശരി അതിനാൽ സാമാന്യവൽക്കരിച്ച ലഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ അവിടെ n1 പോയിന്റുകൾx0fx0x1fx1xnfxn നൽകിയിട്ടുണ്ടെന്ന് കരുതുക അതിനാൽ അവിടെ ഡാറ്റ പോയിന്റുകൾ നൽകിയിരിക്കുന്നു തുടർന്ന് നമുക്ക് nഡിഗ്രിയുടെ ഒരു പോളിനോമിയൽ നിർമ്മിക്കാം അതിനർത്ഥം ഡിഗ്രി 1 ന് വേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ പോളിനോമിയലിനെ ഇപ്പോൾ സാമാന്യവൽക്കരിക്കുന്നു എന്നാൽ നമുക്ക് 2 ന് ചെയ്യാൻ കഴിയും തുടർന്ന് സാമാന്യവൽക്കരണം വളരെ എളുപ്പമായിരിക്കും അതിനാൽ Pnഇവിടെ ഇത് 1 മാത്രമായിരുന്നു Pnxi0nLixfനമ്മൾക്കുണ്ട് f ഉള്ളതിനാൽ n1 അക്കങ്ങളിൽ എല്ലാവരുംf ഇവിടെ വരും പോയിന്റുകൾ നൽകിയിരിക്കുന്നതിനാൽ ഇവയാണ് ഇപ്പോൾ ഡിഗ്രി n ന്റെ ലഗ്രാഞ്ച് പോളിനോമിയൽ ഈ ലഗ്രാഞ്ച് പോളിനോമിയലുകൾ നമുക്ക് ഉള്ളത് കൃത്യമായിLixj0 j≠i nx xjxi xj നിർവചിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഇത് വിപുലീകരിച്ച രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് Lixj0 j≠i nx xjxi xjx x0x x1x xi 1x xi1xi x0xi x1xi xi 1xi xi1ലഭിക്കും അതിനാൽ xi ൽ നിന്ന് i ഒഴികെ മറ്റെല്ലാ പോയിന്റുകളും ഡിനോമിനേറ്ററിൽ കുറയ്ക്കും അതാണ് ഓർമ്മിക്കാൻ എളുപ്പമാണ് ഈ iആം ബഹുപദത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് ഈ ഡിനോമിനേറ്റർ എഴുതട്ടെ അപ്പോൾ നമുക്ക്xi എല്ലായിടത്തും ഉണ്ട് അവിടെ xiഒഴികെ മറ്റെല്ലാ പോയിന്റുകളുംകുറയ്ക്കേണ്ടതാണ് ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് പോകുന്നു xi എല്ലായിടത്തും xആയി മാറ്റിസ്ഥാപിക്കും ബാക്കി എല്ലാം അതേപടി തുടരും അതിനാൽ n ഡിഗ്രി ലാഗ്രാഞ്ച് പോളിനോമിയലുകൾനമുക്ക് എളുപ്പത്തിൽ ഓർക്കാൻ കഴിയുന്നതാണ് ഇവയെ nഡിഗ്രിയുടെ ലാഗ്രാഞ്ച്പോളിനോമിയലുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് വളരെ ലളിതമായ ഒരു സൂത്രവാക്യമാണ്i0nLixf അതാണ്ഇവിടെയുള്ള ഫോർമുലേഷൻഡിഗ്രിn ന്റെ ലാഗ്രാഞ്ച് പോളിനോമിയലുകൾ എന്താണെന്നതിന്റെ സ്റ്റാൻഡേർഡ് ഫലങ്ങൾ ഇവയാണെന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ നമുക്ക് സംഖ്യാ ഉദാഹരണത്തിലേക്ക് പോകാം അതിനാൽ ലാഗ്രേഞ്ചും ന്യൂട്ടന്റെ ഡിവിഡഡ് ഡിഫറൻസ് ഫോർമുലയും ഉപയോഗിച്ച് ഇനിപ്പറയുന്ന ഡാറ്റ ഉപയോഗിച്ച് ഡിഗ്രി 2 അല്ലെങ്കിൽ അതിൽ കുറവുള്ള ഒരു പോളിനോമിയൽ നിർമ്മിക്കുക എന്നതാണ് നമ്മൾ ഇവിടെ ആദ്യം എടുക്കുന്നത് അതിനാൽ നമ്മൾ ക്ക് മൂന്ന് ഡാറ്റ പോയിന്റു കൾ ഉണ്ട് അതിനാൽ നമുക്ക് ഡിഗ്രി 2 പോളിനോമിയൽ പ്രതീക്ഷിക്കാം തന്നിരിക്കുന്ന വിവരം അനുസരിച്ചു ചില സന്ദർഭങ്ങളിൽ കുറവ് ആയിരിയ്ക്കും f മൂല്യവും 1 3 3 ഇവിടെ നൽകിയിരിക്കുന്നു അതുകൊണ്ട്ആദ്യം നമുക്ക് ലാഗ്രാഞ്ച് ഇന്റര്പോലെറ്റിംഗ് പോളിനോമിയൽ ലൂടെ പോകാം ഇവിടെ നമുക്ക് മൂന്ന് ഡാറ്റാ പോയിന്റുകൾ ഉണ്ട് നമുക്ക് ഡിഗ്രി 2 ന്റെ ലാഗ്രാഞ്ച്പോളിനോമിയൽ ലഭിക്കും അതിനാൽ പോളിനോമിയൽ വീണ്ടും i02Lixf എഴുതാം L0 L1ഇതും L2ഇപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്നു അതിനാൽL0xx0 x1 നമ്മൾക്ക്L0xx0 x1 ഉണ്ട് L0xx0 x1 ആണ് ഈ ലഗ്രാഞ്ച്ഇന്റർപോളേഷൻ ഈ 2 ഡിഗ്രിയുടെ ലാഗ്രാഞ്ച് പോളിനോമിയലുകൾ L0 നമുക്ക് L0x13x 2x 4 എന്നുണ്ട് അതുപോലെ L1വേണ്ടി നമുക്ക് വീണ്ടും കണക്കാക്കാം അതിനാൽ ഇവിടെ ഒരേയൊരു വ്യത്യാസം x1 ഇപ്പോൾ നമുക്കുണ്ട് തുടർന്ന് മറ്റെല്ലാ പോയിന്റുകളും കുറയ്ക്കും ആദ്യം നമുക്ക് L1xx1 x0 ഉണ്ട് x0x1 x2 ഈ മൂല്യങ്ങളെല്ലാം വീണ്ടും ചേർക്കുന്നു നമുക്ക് രണ്ടാമത്തെ ഓർഡർ പോളിനോമിയൽ L1 ലഭിക്കും പിന്നെ L2xx2 x0 ലഭിക്കുന്നു ഈ x0 ഉം x1മൂല്യങ്ങളെല്ലാം ഇടുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ ഓർഡർ പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ 16നമുക്ക് ലഭിക്കും ഡിഗ്രി 2 ന്റെ എല്ലാ ആവശ്യമുള്ള പോളിനോമിയലുകളും L0 L1കൂടാതെ L2 ഉള്ളതിനാൽ ഈ L ഓരോന്നിന്റെയും ഫംഗ്ഷൻ മൂല്യം കൊണ്ട് ഗുണിച് ലാഗ്രാഞ്ച് പോളിനോമിയലുകൾ ഇപ്പോൾ എഴുതാം ഇവിടെ P2xi02LixfL0xfx0L1xfx1L2xf നമുക്കുണ്ട് ഇത് ലളിതമാക്കാൻ കഴിയുമ്പോൾ അത് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചു നമുക്ക് 23x24x 73 ലഭിക്കും ഇപ്പോൾ ന്യൂട്ടന്റെ ഡിവിഡഡ് ഡിഫറൻസ് ഫോർമുലയിലേക്ക് വരുമ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നതിന് നമ്മൾ ഡിഫറൻസ് ടേബിൾ നിർമ്മിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഈ വിഭജിച്ച വ്യത്യാസ പട്ടിക ലഭിക്കും നമ്മൾആദ്യ കോളത്തിൽ ഇങ്ങനെ xഎഴുതും അതിനാൽ 1 2 4 fഎന്നിവയിലും നമുക്ക് 1 3 3 എന്നിവയുണ്ട് പിന്നെ ആദ്യം ഈ വിഭജിച്ച വ്യത്യാസം എങ്ങനെ ലഭിക്കും എന്നത് ന്യൂട്ടന്റെ മുന്നോട്ടും പിന്നോട്ടും ഉള്ള വ്യത്യാസത്തിൽ ഫോർമുല നാം ചെയ്യുന്ന ഈ പരിമിത വ്യത്യാസങ്ങൾ നേടുന്നതിന് സമാനമാണ് ഇത് ഇവിടെ കുറയ്ക്കുക ഇവിടെ 3 12 12 ഈ സാഹചര്യത്തിൽ വീണ്ടും3 34 2020 എഴുതാം അവസാനത്തേതിൽ നമ്മൾക്ക് ഇത് ഇപ്പോൾ ഉണ്ട് ഇത് കുറയ്ക്കേണ്ടതുണ്ട് നമുക്ക് 0 24 1 23 ലഭിക്കും ഈ മൂന്ന് പോയിന്റുകളുള്ള വിഭജിത വ്യത്യാസത്തിന്റെ മൂല്യം ഇതാണ് എന്നിട്ട് നമുക്ക് ഈ P2xfx0fx1x0x x0fx2x1x0 ഫോർമുലയിൽ ലളിതമായി ഉപയോഗിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഈ വിഭജിത വ്യത്യാസം മാറ്റിസ്ഥാപിക്കാം ന്യൂട്ടന്റെ ഫോർവേഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയ്ക്ക് സമാനമായി ഇവിടെ ഒരു നേട്ടം കൂടി ഉണ്ട് ഉദാഹരണമായി നമുക്ക് ഒരു പോയിന്റ് കൂടി ചേർക്കണമെങ്കിൽ ഈ ഫോർമുലേഷനിൽ ഒരു അധിക പദം വരും എന്നാൽ ബാക്കിയുള്ള എല്ലാ കണക്കുകൂട്ടലുകളും അതേപടി നിലനിൽക്കും നമുക്ക് അവിടെ ഒരു ടേം കൂടി തുടരാം നമുക്ക് ഒരു പുതിയ ബഹുപദം ലഭിക്കും ലഗ്രാഞ്ച്ഇന്റർപോളേഷൻ ഫോർമുലയിൽ നമുക്കുള്ളത് എന്താണെങ്കിലും ഈ ലഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലുകളെല്ലാം നമുക്ക് വീണ്ടും കണക്കാക്കേണ്ടതുണ്ട് കാരണം ലാഗ്രാഞ്ച് പോളിനോമിയലിന്റെ ഡിഗ്രി മാറും അതിനാൽ വീണ്ടും ഒരു പുതിയ കണക്കുകൂട്ടൽ ഉണ്ടാകും എന്നാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കൂടി ചേർക്കണമെങ്കിൽ പട്ടിക അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് തുടർന്ന് നിലവിലുള്ള ഈ ഒന്നിന് പുറമെ ഒരു അധിക പദം മാത്രമേ ദൃശ്യമാകൂ ഇവിടെയും നമ്മൾ ഈ പരിമിത വ്യത്യാസങ്ങൾ മാറ്റിസ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായും ലാഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഉപയോഗിച്ച് നമ്മൾ ഉരുത്തിരിഞ്ഞ അതേ ബഹുപദമായ ഫലം ലഭിക്കും ഈ പ്രഭാഷണത്തിലെ അവസാനത്തെ ഒരു ഉദാഹരണം കൂടി അതിനാൽ താഴെപ്പറയുന്ന പട്ടികയിൽ നിന്ന് വീണ്ടും ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ലഭിക്കാൻ നമ്മൾ ലാഗ്രാഞ്ചും ന്യൂട്ടന്റെ വിഭജിച്ച വ്യത്യാസ ഫോർമുലയും ഉപയോഗിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ ഡാറ്റയുണ്ട് അതിനാൽ നമുക്ക് ആറ് പോയിന്റുകൾ 0 1 2 4 5 6 എന്നിവയുണ്ട് അവ സമദൂരമല്ല തുടർന്ന് അനുബന്ധ മൂല്യങ്ങൾ നൽകപ്പെടും ഈ സാഹചര്യത്തിൽ ന്യൂട്ടന്റെ വിഭജിച്ച വ്യത്യാസ ഫോർമുലയുമായി നമ്മൾ ആദ്യം പോകും നമ്മൾക്ക് ഇത്രയധികം ഡാറ്റ ഉള്ളപ്പോൾ മനസ്സിലാക്കും പ്രത്യേകിച്ചും ഈ ഉദാഹരണത്തിൽ ന്യൂട്ടന്റെ വിഭജിച്ച വ്യത്യാസ ഫോർമുല അത് വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ കാണും ഈ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ നേടുക അതേസമയം ലാഗ്രാഞ്ച് ഇന്റർപോളേറ്റിംഗ് ഫോർമുല കൂടുതൽ സങ്കീർണ്ണമാണ് അതിനാൽ വിഭജിച്ച വ്യത്യാസ പട്ടികയിലേക്ക് വരുമ്പോൾ x0 1 2 4 5 6 ഇവയുടെ എല്ലാ മൂല്യങ്ങളും ഇവിടെ എഴുതണം തുടർന്ന്f ന്ടെ അനുബന്ധ മൂല്യങ്ങൾ 1 14 15 5 6 19 എന്നിങ്ങനെയാണ് വരുന്നത് തുടർന്ന് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഈ വിഭജിച്ച വ്യത്യാസ പട്ടിക നിർമ്മിക്കേണ്ടതുണ്ട് അതിനാൽ14 11 013 ഇവിടെ 15 142 11 വീണ്ടും5 154 2 5 അത് ഇവിടെ ശരിയാണ് അപ്പോൾ നമുക്ക്6 55 41 ലഭിക്കും പിന്നെ നമുക്ക് അവിടെയുള്ള 19 66 513 ലഭിക്കും സമാനമായി ഈ കേസിനായി നമ്മൾ ഈ പ്രക്രിയ തുടരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഈ 1 132 0 122 6 വ്യത്യാസം വരുത്തേണ്ടതുണ്ട് തുടർന്ന് സമാനമായി 5 14 1 2നമുക്കുണ്ട് അങ്ങനെ തുടരണം ഇത് 2 ആയിരിക്കും അപ്പോൾ അവിടെ 6 ഉണ്ടാകും കൂടാതെ ഈ അടുത്ത വ്യത്യാസവുമായി നമ്മൾ പോകേണ്ടതുണ്ട് അതിനാൽ ഇവിടെ 2 64 0441ഇങ്ങനെയായിരിക്കും നമുക്ക് 1 ഉണ്ട് ഇവിടെ രസകരമായത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്കും 2 25 1441ഉണ്ട് നമുക്കു എല്ലാത്തിനും 1 1 1 ഉണ്ട് എപ്പോഴാണോ നമുക്ക് ബാക്കിയെല്ലാം 0 ആകുന്നത് അന്നേരം അവിടെ 0 കാണും ഇതാണ് നമ്മുടെ പക്കലുള്ള പരിമിത വ്യത്യാസ പട്ടിക ഈ പരിമിത വ്യത്യാസ പട്ടിക ഉള്ളതിനാൽ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള വിഭജിച്ച വ്യത്യാസ ഫോർമുലയിലേക്ക് പോകാം P5xfx0fx1x0x x0fx2x1x0x x0x x1fx3x2x1x0x x0x x1x x2ഇപ്പോൾ കൂടുതൽ എഴുതുന്നില്ല കാരണം ഇവ 0 ആയിരിക്കും എന്നിരുന്നാലും എന്ന 6 പോയിന്റുകൾ നൽകുമ്പോൾ നമ്മൾ അഞ്ചാം ഡിഗ്രി പോളിനോമിയൽ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കില്ല മൂന്നാം ഡിഗ്രി പോളിനോമിയൽ മാത്രമേ ലഭിക്കൂ ഇവിടെ ഈ മൂല്യങ്ങളെല്ലാം മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ fx1x013 ലഭിക്കുന്നു അപ്പോൾ നമുക്ക് ഈ മൂന്ന് പോയിന്റുകൾ ഉള്ളപ്പോൾ 6 ഉണ്ട് നമുക്ക് ഈ 4 പോയിന്റുകൾ ഉള്ളപ്പോൾ 1 ഇവ 0 ആണ് രണ്ട് പദങ്ങൾ കൂടി വരും പക്ഷേ അവ 0 ആയി മാറും അതിനാൽ നമ്മൾ അവ എഴുതുന്നില്ല ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് വളരെ ലളിതമാണ് നമ്മൾക്ക് ഈ മൂന്നാം ഡിഗ്രി പോളിനോമിയൽ ലഭിച്ചു അതിനാൽ ഈ വിഭജിച്ച വ്യത്യാസ ഫോർമുലയെക്കുറിച്ചുള്ള നിരീക്ഷണം എന്താണ് ഒരിക്കൽ പട്ടിക തയ്യാറായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഈ പൂജ്യങ്ങൾ അവിടെ രണ്ടിടത്ത് ലഭിച്ചു അതിനാൽ ഉയർന്ന ഓർഡർ നിബന്ധനകൾ സ്വയമേവ വരുന്നില്ല നമ്മൾക്ക് കണക്കുകൂട്ടൽ കുറവാണ് ഒടുവിൽ നമുക്ക് ഈ മൂന്നാം ഡിഗ്രി പോളിനോമിയൽ എളുപ്പത്തിൽ ലഭിച്ചു അതേസമയം നമുക്ക് ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുലയുമായി പോകണമെങ്കിൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ഡാറ്റ തന്നാൽ നമുക്ക് എല്ലാം L0 L1 L2 L3 L4L5കണക്കാക്കണം പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ലഭിക്കൂ നമുക്ക് ഈ മൂന്നാം ഡിഗ്രി പോളിനോമിയൽ വീണ്ടും ലഭിക്കും എന്നാൽ ഇവിടെ കണക്കുകൂട്ടലുകൾ കൂടുതലായിരിക്കും കാരണം നമുക്ക് ഈ 6 പദങ്ങൾ കണക്കാക്കണം നമ്മൾക്ക് ഇത് ആദ്യമായിട്ടാണ് x-1x-2x-4x-5x-6×1xx-2x-4x-5x-61 01 21 4×14xx-1x-4x-5x-62 02 12 4×15xx-1x-2x-5x-64 04 14 2×5xx-1x-2x-4x-65 05 15 2×6xx-1x-2x-4x-56 06 16 2×19ലഭിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഇവയെല്ലാം ലളിതമാക്കണം ഓരോന്നിനും അഞ്ച് ഡിഗ്രി പോളിനോമിയൽ ഉണ്ട് കൂടാതെ ഡിഗ്രി 5 പദങ്ങൾ ഡിഗ്രി 4 നിബന്ധനകൾ റദ്ദാക്കപ്പെടും ഒടുവിൽ നമുക്ക് മൂന്നാം ഡിഗ്രി പോളിനോമിയൽ ആയ പോളിനോമിയൽ ലഭിക്കും എന്നാൽ ഇത്പരിമിതമായ വ്യത്യാസം വിഭജിച്ച വ്യത്യാസ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ നമ്മൾ ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തേണ്ടതുണ്ട് കാരണം ഓരോ ലഗ്രാഞ്ച് പോളിനോമിയലും അഞ്ചാം ഡിഗ്രി പോളിനോമിയലാണ് അത് ഇവിടെയുള്ള ഈ ലോവർ ഡിഗ്രി പോളിനോമിയൽ ലഭിക്കാൻ ലളിതമാക്കേണ്ടതുണ്ട് മിക്ക കേസുകളിലും ഈ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ സാധാരണയായി ഉയർന്ന ഓർഡർ ആയിരിക്കുമ്പോൾ ഡാറ്റ നൽകുകയും കൂടുതൽ പോയിന്റുകൾ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഈ ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുല ശരിക്കും മടുപ്പിക്കുന്നതാണ് അതേസമയം ഈ സാഹചര്യത്തിൽ ഒരു ലഘൂകരണം ഉണ്ടായാൽ പരിമിതമായ വ്യത്യാസം സിസ്റ്റം 0 ആയിത്തീരുന്നു അതിനാൽ ലോവർ ഡിഗ്രി പോളിനോമിയലിന്റെ മൂല്യനിർണ്ണയം പരിമിത വ്യത്യാസ ഫോർമുലയിൽ എളുപ്പമായിരുന്നു ശരി ഈ പ്രഭാഷണം തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകൾ ഇവയാണ് വീണ്ടും ഉപസംഹരിക്കാൻ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ കണക്കാക്കുന്നതിനുള്ള രണ്ട് ഫോർമാറ്റുകൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്ന് ന്യൂട്ടന്റെ ഡിവിഡഡ് ഡിഫറൻസ് ഫോർമുലയാണ് ഇവിടെ നമ്മൾ ഈ വിഭജിത വ്യത്യാസങ്ങൾ സാധാരണയായി പട്ടികയിൽ നിന്ന് കണക്കാക്കണം തുടർന്ന് നമുക്ക് ഈ പോളിനോമിയൽ ലഭിക്കും ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുലയിൽ ഇത് അൽപ്പം വ്യത്യസ്തമാണ് നമ്മൾ ലഗ്രാഞ്ച് പോളിനോമിയൽ കണക്കാക്കണം അവസാനത്തെ ഉദാഹരണം ഈ ന്യൂട്ടന്റെ വിഭജിച്ച വ്യത്യാസ ഫോർമുല ഉപയോഗിച്ച് കൂടുതൽ മൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ താഴ്ന്ന ഡിഗ്രീ പോളിനോമിയൽ ആയ പോളിനോമിയലിനെ കണക്കാക്കുന്നത് വളരെ എളുപ്പമാണെന്ന് കണ്ടു അതേസമയം ലഗ്രാഞ്ച് ഇന്റർപോളേഷൻ ഫോർമുലയിൽ നമുക്ക് എല്ലാ ലഗ്രാഞ്ച് പോളിനോമിയലുകളും കണക്കാക്കേണ്ടതുണ്ട് തുടർന്ന് ഈ ഫോർമുലയിൽ സംയോജിപ്പിക്കേണ്ടതുണ്ട് കണക്കുകൂട്ടലുകൾ ശരിക്കും മടുപ്പിക്കുന്നതായിരുന്നു ശരി ഈ പ്രഭാഷണത്തിന് അത്രയേയുള്ളൂ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ നന്ദി പറയുന്നു